ഈ എൻപിടിഎൽ പ്രഭാഷണത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഒരു കാന്തിക പ്രവാഹ സാന്ദ്രത M ഉണ്ടെങ്കിൽ അതിൽ നിന്ന് വെക്റ്റർ പൊട്ടൻഷ്യൽ എങ്ങനെ കണ്ടെത്താമെന്നും തുടർന്ന് ആ വെക്റ്റർ പൊട്ടൻഷ്യലിൻ്റെ സഹായത്തോടെ തരംഗ സമവാക്യം എങ്ങനെ പരിഹരിക്കാമെന്നും ഇന്നു നമുക്കു കാണാം അതിനുശേഷം പൊതുവായ ഒരു പരിഹാരത്തിലേക്ക് നമ്മൾ പോകും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ട കാന്തിക പ്രവാഹം എന്ന ആശയത്തെ ഈ ക്ലാസിൽ ഒന്നു ഓർമിപ്പിക്കുന്നു അതുകൊണ്ട് ഞാൻ മാക്സ്വെൽ സമവാക്യം ഒന്നുകൂടി എഴുതുകയാണ് 'J' ൻ്റെയും 'M' ൻ്റെയും അതായത് വൈദ്യുത പ്രവാഹത്തിൻ്റെയും കാന്തിക പ്രവാഹത്തിൻ്റെയും സാന്നിധ്യത്തിലുള്ള മാക്സ്വെൽ സമവാക്യമാണ് ഞാൻ എഴുതുന്നത് അതിനാൽ എനിക്ക് ഡെൽ ക്രോസ് E സമം ഇങ്ങനെ എഴുതാൻ കഴിയും മൈനസ് J ഒമേഗ മ്യൂ H മൈനസ് M തുടർന്ന് ഡെൽ ക്രോസ് H സമം J ഒമേഗ എപ്സിലോൺ Eപ്ലസ് J എന്നും എഴുതാം ഡെൽ ഡോട്ട് D സമം ρe യും ഡെൽ ഡോട്ട് B സമം ρm ഉം ആണ് ഇതാണ് സാമാന്യവൽക്കരിച്ച മാക്സ്വെൽ സമവാക്യം സമയ ഹാർമോണിക് കേസ് അതായത് J M എന്നിവ സമയ ഹാർമോണിക് കരണ്ടുകളാണ് M സമം പൂജ്യം ആകുമ്പോൾ അതായത് J മാത്രമുള്ള അവസ്ഥ ഇതിനോടകം നമ്മൾ കണ്ടുകഴിഞ്ഞു അതിനാൽ നമ്മൾ ഇത് വീണ്ടും ചെയ്യില്ല എന്നാൽ J പൂജ്യവും M പൂജ്യം അല്ലാത്തതുമായ അവസ്ഥയിൽ ഈ സമവാക്യത്തെ ഇങ്ങനെ എഴുതി പരിഹരിക്കാം അതുകൊണ്ട് ഡെൽ ക്രോസ് E സമം മൈനസ് J ഒമേഗ മ്യൂ എന്നാൽ ഇവിടെ വെക്ടർ പൊട്ടൻഷ്യൽ 'F' ന് അനുശ്രണമായ പരിഹാരം ആയിരിക്കും യഥാർത്ഥത്തിൽ ലഭിക്കുന്നത് ഇലക്ട്രിക് കരണ്ടിൻറെ കാര്യത്തിലെന്നപോലെ നമ്മൾ അവതരിപ്പിച്ച കാന്തിക വെക്ടർ പൊട്ടൻഷ്യൽ 'M' ഒരു ഇലക്ട്രിക് വെക്ടർ പൊട്ടൻഷ്യൽ 'F' നെ ഉൽപാദിപ്പിക്കും എന്നാൽ ഇവിടെ ഇക്കാര്യത്തിൽ ഞാൻ പരിഗണിക്കുന്നത് 'M' ൻ്റെ അസാന്നിധ്യവും 'J' യുടെ സാന്നിധ്യവുമാണ് അതിനാൽ തന്നെ മണ്ഡല പരിമാണങ്ങൾക്ക് 'F' എന്ന കീഴ്ക്കുറിപ്പ് ഞാൻ നൽകുന്നു അതുകൊണ്ട് EF ഇതിലെ F എന്ന കീഴ്ക്കുറിപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ യഥാർത്ഥത്തിൽ അവതരിപ്പിക്കുന്നത് പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ F ഇലക്ട്രിക് വെക്ടർ പൊട്ടൻഷ്യൽ ആണെന്നാണ് ഞാൻ അത് നിർവചിക്കാം അതുകൊണ്ടാണ് ഞാൻ ഈ M എഴുതുന്നത് അതുപോലെ ഡെൽ ക്രോസ് HF j ഒമേഗ എപ്സിലോൺ EFപ്ലസ് പൂജ്യം ആയിരിക്കും കാരണം J പൂജ്യമാണ് ഡെൽ ഡോട്ട് D യും പൂജ്യം ആയിരിക്കും ഞാൻ ആദ്യം ρe എഴുതി അത് തെളിയിക്കാം അങ്ങനെയെങ്കിൽ ഡെൽ ഡോട്ട് B സമം ρm ആയിരിക്കും അടുത്തതായി M ഒരു സമയ ഹാർമോണിക് മാഗ്നെറ്റിക് കരണ്ട് ആകുന്നതിനുള്ള വ്യവസ്ഥകൾ പറയാം സമയ ഹാർമോണിക് മാഗ്നെറ്റിക് കരണ്ടിൻറെ സമ്പൂർണ്ണ മണ്ഡലവും സമജാതീയ മണ്ഡലം ആണ് അടുത്തത് കണ്ടിന്യൂയിറ്റി സമവാക്യം എടുക്കാം ഞാൻ ആദ്യം കണ്ടിന്യൂയിറ്റി സമവാക്യം ഓർമ്മിപ്പിക്കാം എന്താണ് ഡെൽ ക്രോസ് J എന്ന് ഞാൻ എഴുതാം അത് മൈനസ് j ഒമേഗാ ρe ആണ് J പൂജ്യമാണ് അതുകൊണ്ട് ഡെൽ ഡോട്ട് J പൂജ്യമാണ് അതിൽനിന്നും ρe പൂജ്യം ആണെന്ന് മനസ്സിലാക്കാം അതുകൊണ്ട് ρe പൂജ്യം ആണെങ്കിൽ എനിക്ക് ഈ സമവാക്യത്തെ തിരുത്തി ഇത് പൂജ്യം എന്ന് എഴുതാൻ കഴിയും അപ്പോൾ ഡെൽ ഡോട്ട് D പൂജ്യം ആയിത്തീരും അതുകൊണ്ട് ഡെൽ ഡോട്ട് എപ്സിലോൺ EF പൂജ്യം ആയിത്തീരും അതുകൊണ്ട് ഇവിടെ കാണുന്ന ഈ ഇലക്ട്രിക് ഫീൽഡ് മാഗ്നെറ്റിക് കറണ്ട് പൂജ്യം ആയതുകൊണ്ട് കേന്ദ്രത്തിൽ നിന്നും വ്യത്യസ്തദിശകളിൽ അകന്നു പോകുന്ന ഇലക്ട്രിക് ഫീൽഡ് ആണ് അതുകൊണ്ട് എനിക്ക് ഇപ്പോൾ EFനെ മൈനസ് 1 ഹരിക്കണം എപ്സിലോൺ ഡെൽ ക്രോസ് F എന്ന് എഴുതാൻ കഴിയും അടുത്തതായി ഞാൻ വെക്ടർ പൊട്ടൻഷ്യലിനെ അവതരിപ്പിക്കുകയാണ് ഇതാണ് ഇലക്ട്രിക് വെക്ടർ പൊട്ടൻഷ്യൽ F ആണ് ഇലക്ട്രിക് വെക്ടർ പൊട്ടൻഷ്യൽ കാരണം ഇലക്ട്രിക് ഫീൽഡിനെ ഈ വെക്ടർ ഫംഗ്ഷൻ ഉപയോഗിച്ചാണ് നിർവചിച്ചിരിക്കുന്നത് അതുകൊണ്ട് എനിക്കിപ്പോൾ ഈ EFനെ മാക്സ്വെല്ലിൻ്റെ രണ്ടാമത്തെ കേൾ സമവാക്യത്തിൽ നിക്ഷേപിക്കാം ഇപ്പോൾ എനിക്ക് EFനെ F ൻ്റെ നാമത്തിൽ ആവിഷ്കരിക്കുവാൻ കഴിഞ്ഞു അതുകൊണ്ട് ഇവിടെ എനിക്ക് നിക്ഷേപിക്കുവാനും അതെനിക്ക് ഡെൽ ക്രോസ് HFഎന്നത് j ഒമേഗ എപ്സിലോൺ EFആണെന്ന ഉത്തരവും തന്നു അതുകൊണ്ട് ഈ EFനെ ഉപയോഗിച്ച് എനിക്കിപ്പോൾ j ഒമേഗ എപ്സിലോൺ മൈനസ് 1 ഹരിക്കണം എപ്സിലോൺ ഡെൽ ക്രോസ് F എന്ന് എഴുതാൻ കഴിയും തുടർന്ന് ഡെൽ ക്രോസ് HF പ്ലസ് j ഒമേഗ F പൂജ്യമായി തീരുമെന്നും എഴുതാം HF പ്ലസ് j ഒമേഗ F ൻ്റെ കേൾ പൂജ്യം ആയതുകൊണ്ട് അതിൻ്റെ ഗ്രേഡിയൻറ് Vm എന്നൊരു സ്കലാർ ഫംഗ്ഷൻ ആണെന്ന് പറയാൻ കഴിയും ഇവിടെ ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ മൈനസ് ഞാൻ അറിഞ്ഞുകൊണ്ടുതന്നെ കൊടുത്തതാണ് കാരണം എൻ്റെ കേൾ സമവാക്യത്തിൽ M നെഗറ്റീവ് ആണെന്ന് നിങ്ങൾ കാണും അതു നേരെ ആക്കുന്നതിനു വേണ്ടി ഇവ രണ്ടും ഇലക്ട്രിക് വെക്ടർ പൊട്ടൻഷ്യലും മാഗ്നെറ്റിക് സ്കലാർ പൊട്ടൻഷ്യലും നിർവചനമനുസരിച്ച് നെഗറ്റീവ് ആണെന്ന അനുമാനത്തിൽ നമ്മൾ എത്തിച്ചേരുന്നു ഇതാണ് വേറൊരു സ്കലാർ ഫംഗ്ഷൻ പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ അതായത് മാഗ്നെറ്റിക് സ്കലാർ പൊട്ടൻഷ്യൽ ഇതിനെ നിർവചിക്കുന്ന സമവാക്യം ഇതാണ് ഇതോടുകൂടി ഞാൻ ഈ സമവാക്യത്തിൻറെ കേൾ എടുക്കുകയാണെങ്കിൽ EFഈ സമവാക്യത്തിന് തുല്യമാകും ഞാൻ കേൾ എടുക്കുകയാണെങ്കിൽ ഇതൊരു നിർവചന സമവാക്യം അതുകൊണ്ട് ഡെൽ ക്രോസ് EFസമം മൈനസ് 1 ഹരിക്കണം എപ്സിലോൺ ഡെൽ ക്രോസ് ഡെൽ ക്രോസ് F എന്ന് കിട്ടും അത് മൈനസ് 1 ഹരിക്കണം എപ്സിലോൺ ഡെൽ വെക്ടർ അനന്യത തരും അതോടൊപ്പം മാക്സ്വെല്ലിൻ്റെ ആദ്യത്തെ കേൾ സമവാക്യത്തിൽ നിന്ന് ഡെൽ ക്രോസ് EF കേൾ EFഎന്നിവയുടെ വാല്യൂ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇവിടെനിന്ന് വേറൊരു വാല്യുവും കിട്ടി അതുകൊണ്ട് ഈ രണ്ടു സമവാക്യങ്ങളെ ഞാൻ സമമാക്കുവാൻ ശ്രമിച്ചാൽ അത് എനിക്ക് മൈനസ് 1 ഹരിക്കണം എപ്സിലോൺ ഡെൽ ഡെൽ ക്രോസ് F മൈനസ് ഡെൽ വർഗ്ഗം F സമം മൈനസ് j ഒമേഗ മ്യൂ HFമൈനസ് M അല്ലെങ്കിൽ ഇതിൽ നിന്നും ഡെൽ വർഗ്ഗം F പ്ലസ് j ഒമേഗ മ്യൂ എപ്സിലോൺ HF സമം ഡെൽ ഡെൽ ഡോട്ട് F മൈനസ് M ഗുണിതം എപ്സിലോൺ എന്നും എഴുതാൻ കഴിയും അതുകൊണ്ട് മാഗ്നെറ്റിക് സ്കലാർ പൊട്ടൻഷ്യൽ Vm ൻ്റെ നിർവചന സമവാക്യം HF ൻ്റെ സ്ഥാനത്ത് നിക്ഷേപിച്ചാൽ ഡെൽ വർഗ്ഗം F പ്ലസ് j ഒമേഗ മ്യൂ എപ്സിലോൺ എന്ന് എനിക്ക് എഴുതുവാൻ കഴിയും ഇവിടെ ഞാൻ മാഗ്നെറ്റിക് പൊട്ടൻഷ്യലിൻ്റെ നിർവചനം നിക്ഷേപിക്കുകയാണ് അതുകൊണ്ട് HFൻ്റെ വാല്യൂ ഇത് മൈനസ് ഇത് എന്തായിരിക്കുമെന്ന് ഇതിൽ നിന്നും എനിക്ക് എഴുതാൻ കഴിയും അതുകൊണ്ട് മൈനസ് അല്ലെങ്കിൽ ഇപ്പോൾ F ൻ്റെ ഡൈവേർജൻസ് നമ്മൾ നിർവചിച്ചിട്ടില്ല കേളിൻ്റെ ഡൈവേർജൻസ് ഇതിനോടകം നമ്മൾ നിർവചിച്ചു കഴിഞ്ഞതാണ് അതുകൊണ്ട് നമുക്ക് ഒന്നു കൂടി ബാക്കിയുണ്ട് അത് ഗോസ് ഉപാധിയാണ് ഇപ്പോൾ നമുക്ക് ആ ഡെൽ ഡോട്ട് F സമം മൈനസ് j ഒമേഗ മ്യൂ എപ്സിലോൺ Vm എന്നു നിക്ഷേപിക്കാം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഈ രണ്ടു പദങ്ങളും ഇല്ലാതാവുകയും ഡെൽ വർഗ്ഗം F പ്ലസ് k വർഗ്ഗം F സമം മൈനസ് ഇത് എന്ന് നമുക്ക് കിട്ടുകയും ചെയ്യും ഇതാണ് F ൽ ഉള്ള ഇൻഹോമോജീനിയസ് വെക്ടർ ഹെലംഹോൾട്ട്സ് സമവാക്യം അതുകൊണ്ട് ഇതിനു പരിഹാരം കാണേണ്ട ആവശ്യമുണ്ട് പക്ഷേ ഇത് നിങ്ങൾക്ക് അറിയാവുന്നതാണ് കാരണം ഇതിനോടകം ഈ സമവാക്യത്തിൻറെ പരിഹാരം നമ്മൾ കണ്ടുപിടിച്ചതാണ് അതുകൊണ്ട് അതേ വിധത്തിൽ ഇതും നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ് അതുകൊണ്ട് പരിഹാരം ഇവിടെ കിട്ടിക്കഴിഞ്ഞു അതുകൊണ്ട് ഒരിക്കൽ ഞാൻ ഈ സമവാക്യത്തെ പരിഹരിച്ചാൽഅതിനർത്ഥം F ഇപ്പോൾ അറിയപ്പെടുന്നത് ആണെന്നാണ് അതുകൊണ്ട് EF മൈനസ് ഡെൽ ക്രോസ് F ആണെന്ന് എനിക്ക് എളുപ്പത്തിൽ എഴുതാൻ കഴിയും കാരണം F അറിയുന്നതാണല്ലോ അതുകൊണ്ട് EFഅറിയാം HFഎനിക്ക് കണ്ടുപിടിക്കാം HFസമം മൈനസ് j ഒമേഗ F മൈനസ് ഡെൽ Vm സമം മൈനസ് j ഒമേഗ F പ്ലസ് ഡെൽ ഡെൽ ക്രോസ് F ഹരിക്കണം ഒമേഗ മ്യൂ എപ്സിലോൺ ആണ് സാധാരണയായി ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത് അതായത് HFനെ j യുടെ വാക്കുകളിൽ പക്ഷേ ഒരിക്കൽ EFനിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ മാക്സ്വെൽ സമവാക്യത്തിൻ്റെ സഹായത്തോടെയും അതോടൊപ്പം ഇതിൻറെ കേളും എടുത്താൽ അതു നിങ്ങൾക്ക് HFനെ നൽകും F ൻ്റെ പരിഹാരത്തിൻ്റെ സങ്കീർണ്ണതയെ ആശ്രയിച്ച് ഇവയിലേതെങ്കിലുമൊന്ന് ആളുകൾ ചെയ്യും അതായത് F ൻ്റെ പൊട്ടൻഷ്യൽ അറിയാം എന്നാണ് ഇത് പറയുന്നത് നമ്മൾ ഈ സമവാക്യം A യ്ക്കുവേണ്ടി പരിഹരിച്ചത് ഇപ്പോൾ ഒന്ന് ഓർത്തു നോക്കുകയാണ് പക്ഷേ അതിപ്പോൾ വൈദ്യുതി സ്രോതസ്സ് J യ്ക്കുവേണ്ടി ഇൻഹോമോജീനിയസ് വെക്ടർ ഹോമോജീനിയസ് നമ്മൾ കണ്ടു മാഗ്നെറ്റിക് വെക്ടർ പൊട്ടൻഷ്യലിൻ്റെ നാമത്തിലുള്ള ഇൻഹോമോജീനിയസ് വെക്ടർ ഹെലംഹോൾട്ട്സ് സമവാക്യം നമ്മൾ ഇപ്പോൾ കണ്ടുകഴിഞ്ഞു ഇതിനോടകം ഈ സമവാക്യം നമ്മൾ ഇപ്പോൾ കണ്ടുകഴിഞ്ഞു നേരത്തെ ഈ സമവാക്യം മാഗ്നെറ്റിക് വെക്ടർ പൊട്ടൻഷ്യലിൻ്റെ നാമത്തിൽ ആയിരുന്നു അതായത് ഡെൽ വർഗ്ഗം A പ്ലസ് k വർഗ്ഗം A സമം മൈനസ് മ്യൂ J ഇതായിരുന്നു നേരത്തെ കണ്ട ഹെലംഹോൾട്ട്സ് സമവാക്യം ഇൻഹോമോജീനിയസ് വെക്ടർ ഹെലംഹോൾട്ട്സ് സമവാക്യം ഈ സമവാക്യത്തിൻറെ പരിഹാരം രണ്ടുതവണ നമ്മൾ ചെയ്തതാണ് നമ്മൾ ഇത് പണ്ടൊരിക്കൽ കണ്ടപ്പോൾ ഇൻഹോമോജീനിയസ് ഭാഗം കരണ്ട് ഇലമെൻ്റിനുവേണ്ടി പരിഹരിച്ചത് ആണെന്ന് ഞാൻ നിങ്ങളോടു പറഞ്ഞു വേറൊരു സമയത്ത് ലോങ് ഡൈപോളിനു വേണ്ടി നമ്മൾ ഈ സമവാക്യത്തെ പരിഹരിച്ചതാണ് പക്ഷേ രണ്ട് കാര്യങ്ങളിലെ ആ രണ്ടു പരിഹാരങ്ങളും വെക്ടർ ഹെലംഹോൾട്ട്സ് സമവാക്യത്തിൽ നിന്ന് സ്കലാർ ഹെലംഹോൾട്ട്സ് സമവാക്യത്തിലേക്ക് നമ്മൾ ലഘൂകരിച്ചു കാരണം ആ രണ്ട് അവസ്ഥകളിലും കരണ്ട് Z ദിശയിൽ മാത്രമായിരുന്നു അതായത് വെക്ടർ ഹെലംഹോൾട്ട്സ് സമവാക്യം പരിഹരിക്കാതെ സ്കലാർ ഹെലംഹോൾട്ട്സ് സമവാക്യം നമ്മൾ പരിഹരിച്ചത് അതൊരു ഒരു ഏകമാന സ്രോതസ്സ് ആയതുകൊണ്ട് മാത്രമാണ് പക്ഷേ ഇപ്പോൾ കരണ്ട് ഒരു ത്രിമാനമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് എങ്കിൽ അതായത് Z ഒരു ത്രിമാനമാണ് എങ്കിൽ എങ്ങനെ പരിഹരിക്കും എന്ന് നമ്മൾ ഇപ്പോൾ കാണും അതൊരു ചെറിയ ഭാഗമാണ് കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സിൽ y x z മുതലായവ പരിഹരിക്കുന്നതിനുവേണ്ടി നമ്മൾ ഉപയോഗിച്ച ചിത്രം ഇതായിരുന്നു അതുകൊണ്ട് ഒരിക്കൽ കൂടി ചെയ്യുന്നതിനുവേണ്ടി നമ്മൾ അത് ഒന്നു കൂടി ഓർമ്മിച്ചെടുക്കുന്നു കാരണം നമ്മൾ സാധാരണയായി സ്രോതസ്സുകൾ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സിലാണ് പരിഹരിക്കാറുള്ളത് കോർഡിനേറ്റ് സിസ്റ്റത്തിൻ്റെ തുടക്കത്തിൽ ഈ ദിശയിൽ Jz എന്നൊരു കരണ്ട് ഡെൻസിറ്റി എനിക്കുണ്ട് Jz ന് Z ഘടകം മാത്രമേ ഉള്ളൂ എന്നതുകൊണ്ട് A യും Z ദിശയിലുള്ളത് ആയിരിക്കും എന്ന് നമുക്ക് എളുപ്പത്തിൽ പറയുവാൻ കഴിയും അതുകൊണ്ടുതന്നെ വെക്ടർ ഹെലംഹോൾട്ട്സ് സമവാക്യം ഡെൽ വർഗ്ഗം Az പ്ലസ് k വർഗ്ഗം Az സമം മൈനസ് മ്യൂ Jz എന്നായി മാറും ഈ സമവാക്യം ഒരു സ്കലാർ സമവാക്യമാണ് ഇതിൻ്റെ പരിഹാരം എന്താണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞതാണ് നിങ്ങൾക്കറിയാം ഒരേ തരത്തിലുള്ള ഡിഫ്രെൻഷ്യൽ സമവാക്യങ്ങൾ എല്ലായ്പ്പോഴും ഒരേ പരിഹാരം തരും എന്ന് അതുകൊണ്ട് Az എന്നത് മ്യൂ ഹരിക്കണം 4 pi Jz e പവർ മൈനസ് j kr ഹരിക്കണം r dv' ആണ് ഇതിനു മുകളിലാണ് സ്രോതസ്സ് നിലനിൽക്കുന്നത് ഇതാണ് നമ്മൾ പരിഹാരമായി കണ്ടത് ഇനിയിപ്പോൾ Z നു പകരമായി J യ്ക്കു ഒരു ax ഘടകം കൂടി ഉണ്ടെന്നു കരുതുക അതായത് ഇതിന് ഒരു Jx ഉം Jy ഉം ഉണ്ട് അപ്പോൾ ഒന്നിനുശേഷം ഒന്ന് എന്ന രീതിയിൽ നമ്മൾ പരിഗണിക്കും എനിക്കൊരു Jx ഉണ്ടെന്ന് കരുതുക അതായത് എനിക്ക് ഇവിടെ ഒരു Jx ഉണ്ട് അതുകൊണ്ട് സ്കലാർ സമവാക്യം ഡെൽ വർഗ്ഗം Ax പ്ലസ് k വർഗ്ഗം Ax സമം മൈനസ് മ്യൂ Jx എന്നായിരിക്കും അതിൻറെ പരിഹാരം Ax എന്നത് മ്യൂ ഹരിക്കണം 4 pi എന്നുമായിരിക്കും അതിനോടൊപ്പം Ay ദിശയിലുള്ള കരണ്ട് കൂടി നമുക്കുണ്ടെങ്കിൽ കരണ്ട് ഡെൻസിറ്റി നമ്മുടെ സമവാക്യം ഡെൽ വർഗ്ഗം Ay പ്ലസ് k വർഗ്ഗം Ay സമം മൈനസ് മ്യൂ Jy എന്നും Ay എന്നത് മ്യൂ ഹരിക്കണം 4 pi v' Jy e പവർ മൈനസ് j kr ഹരിക്കണം r dv' എന്നും ആയിരിക്കും അതുകൊണ്ട് ഈ എല്ലാ ഘടകങ്ങളും ഉണ്ടെങ്കിൽ A എന്നത് മ്യൂ ഹരിക്കണം 4 pi J e പവർ മൈനസ് j kr ഹരിക്കണം r dv' എന്നായിരിക്കുമെന്ന് എനിക്ക് എളുപ്പത്തിൽ എഴുതാൻ സാധിക്കും അതുകൊണ്ട് ഇതാണ് വെക്ടർ ഹെലംഹോൾട്ട്സ് സമവാക്യത്തിൻറെ ഉത്തരം ഇതൊരു പൊതുവായ കാര്യം അല്ലാത്തതു കാരണം ഇപ്പോൾ ആരംഭ സ്ഥലത്തുനിന്ന് സ്രോതസ്സ് മാറ്റുകയാണെങ്കിൽ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ സ്രോതസ്സ് പൊതുവാണ് അതുകൊണ്ട് ആരംഭ സ്ഥലത്തുനിന്ന് സ്രോതസ്സ് മാറ്റി പ്രൈം കോർഡിനേറ്റ്സ് പ്രതിനിധീകരിക്കുന്ന സ്ഥാനത്ത് വെക്കുമ്പോൾ അതായത് എനിക്ക് ഈ ചിത്രം ഇതാണ് എൻ്റെ കോർഡിനേറ്റ് സിസ്റ്റം xyz എൻറെ സ്രോതസ്സ് ഇവിടെയാണ് ഏതാണ്ട് ഇവിടെ അതിൻ്റെ കോർഡിനേറ്റ് xyz ആണ് ഇതാണ് എൻറെ സ്രോതസ്സ് കരണ്ട് സ്രോതസ്സ് ഞാൻ വീണ്ടും പറയും കരണ്ട് സ്രോതസ്സ് എന്നാൽ നമുക്കിപ്പോൾ പറയാം ഞാൻ P എന്ന പോയിൻ്റിനെ നിരീക്ഷിക്കുകയാണ് അതിൻറെ കോഡിനേറ്റ് xyz ആണ് അതുകൊണ്ട് എനിക്ക് എഴുതാൻ സാധിക്കും ഇതാണ് എൻറെ r വെക്ടർ ഇതു ആയിരിക്കും എൻറെ r' വെക്ടർ അതുകൊണ്ട് എൻറെ സ്രോതസ്സിൽ നിന്നും പരീക്ഷണ ബിന്ദുവിലേക്കുള്ള വെക്ടർനെ ഞാൻ വലിയ അക്ഷരം R എന്നുവിളിക്കും അതുകൊണ്ട് എനിക്ക് പറയുവാൻ കഴിയും അത് xyz ൻറെ ഒരു ഫങ്ക്ഷൻ ആണ് അത് മ്യൂ ഹരിക്കണം 4 pi ആയിരിക്കും ഇതാണ് മ്യൂ v' Jx'y'z' e പവർ മൈനസ് j kR ഹരിക്കണം R dv' എന്നും ആയിരിക്കും അതേ വിധത്തിൽ ഞാൻ പറയട്ടെ ഇതാണ് A ഇതേ വിധത്തിൽ ഈ വെക്ടർ ഹെലംഹോൾട്ട്സ് സമവാക്യത്തിൻറെ പരിഹാരവും ഇലക്ട്രിക് വെക്ടർ പൊട്ടൻഷ്യൽ F ൻറെ നാമത്തിൽ നമുക്ക് കാണിക്കാൻ കഴിയും അതുകൊണ്ട് അത് F സമം 4 pi Mx'y'z' e പവർ jkR ഹരിക്കണം R dv' ആണ് ഇനി J യും M ഉം രേഖീയ സാന്ദ്രതകളെ പ്രതിനിധാനം ചെയ്യുകയാണെങ്കിൽ കാരണം J യും M ഉം കരണ്ട് ഡെൻസിറ്റി ആയിട്ടാണ് നമ്മൾ ഊഹിച്ചിരിക്കുന്നത് പക്ഷേ J യും M ഉം ഉണ്ടെങ്കിൽ അവ ഒരു ചതുരശ്ര മീറ്ററിൽ ഉള്ള ആമ്പിയർ ആണ് അതുകൊണ്ട് J യും M ഉം ഓരോ മീറ്റർ വ്യതിയാനത്തിനും രേഖീയമായി മാറിക്കൊണ്ടിരിക്കുന്ന സാന്ദ്രതകൾ ആണ് അതുകൊണ്ട് ഈ വ്യാപ്ത ഇന്റഗ്രലിനെ പ്രതല ഇന്റഗ്രലായി ചുരുക്കി എഴുതാൻ കഴിയും ആ സമയത്ത് എൻറെ A എന്നത് മ്യൂ ഹരിക്കണം 4 pi Jsxyz e പവർ മൈനസ് jkR ഹരിക്കണം R ds എന്നും F എന്നത് എഫ്സിലോൺ ഹരിക്കണം 4 pi Msxyz e പവർ മൈനസ് jkR ഹരിക്കണം R ds എന്നും ആയിരിക്കും ഇനിയിപ്പോൾ നമ്മൾക്ക് ഇലക്ട്രിക് മാഗ്നറ്റിക് കരണ്ടുകൾ Ie യും Im ഉം ഉണ്ടെങ്കിൽ അവയുടെ ഇന്റഗ്രലുകൾ രേഖീയ ഇന്റഗ്രലുകൾ line integrals ആയി മാറും അതുകൊണ്ട് A സമം മ്യൂ ഹരിക്കണം 4 pi Iexyz e പവർ മൈനസ് jkR ഹരിക്കണം R dl എന്നും അതേ വിധത്തിൽ F എന്നത് എഫ്സിലോൺ ഹരിക്കണം 4 pi എന്നും ആയിരിക്കും അതുകൊണ്ട് ഈ പൊട്ടൻഷ്യലുകളും അവയുടെ പരിഹാരങ്ങളും നമ്മൾ കണ്ടുകഴിഞ്ഞു ഇപ്പോൾ നമ്മൾ കാണുന്നത് പ്രസരണം ചെയ്യപ്പെട്ട വൈദ്യുത കാന്തിക മണ്ഡലങ്ങളുടെ പരിഹാരം എന്തായിരിക്കും എന്നാണ് J ൻറെയും M ൻറെയും സാന്നിധ്യത്തിലുള്ള പരിഹാരം ആണ് നമ്മൾ കാണുന്നത് കാരണം J മാത്രവും M മാത്രവും ഉള്ളപ്പോഴുള്ള പരിഹാരം നമ്മൾ കണ്ടുകഴിഞ്ഞു J ൻറെയും M ൻറെയും സാന്നിധ്യം ഉള്ളപ്പോൾ നടപടിക്രമം അങ്ങനെ ആയിരിക്കില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു അതുകൊണ്ട് ആദ്യപടി M നെ പൂജ്യമായി പരിഗണിച്ച് J കാരണം മാത്രം ഉണ്ടാകുന്ന മാഗ്നറ്റിക് വെക്ടർ പൊട്ടൻഷ്യൽ A കണ്ടു പിടിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ആ മൂന്നു വിവരണങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് കിട്ടും വ്യാപ്തം ഉള്ള ഒരു കരണ്ട് ഡെൻസിറ്റി എനിക്ക് ഉണ്ടെന്നു കരുതുക അതുകൊണ്ട് A സമം മ്യൂ ഹരിക്കണം 4 pi ഗുണിക്കണം J e പവർ മൈനസ് jkR ഹരിക്കണം R dv ആണ് അപ്പോൾ M കാരണം മാത്രമുള്ള F കണ്ടുപിടിക്കുക അതുകൊണ്ട് F എന്നത് എഫ്സിലോൺ ഹരിക്കണം 4 pi v M e പവർ മൈനസ് jkR ഹരിക്കണം R dv ആയിരിക്കും അപ്പോൾ നിങ്ങൾ HA കണ്ടു പിടിക്കുക ഇപ്പോൾ നിങ്ങൾ ഞാൻ HAഎഴുതുന്നത് കാണുന്നുണ്ടല്ലോ ഇത് മണ്ഡലത്തിലെ ഇലക്ട്രിക് കരണ്ടിൻറെ മാത്രം സാന്നിധ്യത്തെ സൂചിപ്പിക്കുന്നു അതുകൊണ്ട് HAഎന്നത് ഒന്ന് ഹരിക്കണം മ്യൂ ഡെൽ ക്രോസ് A ആയിരിക്കും ഇപ്പോൾ നിങ്ങൾക്ക് അറിയാം നിങ്ങൾക്ക് HA കണ്ടുപിടിക്കാൻ കഴിയുമെന്ന് നിങ്ങൾ EA കണ്ടുപിടിക്കുക നിങ്ങൾക്ക് A കണ്ടുപിടിക്കാൻ കഴിയും ഇതിനോടകം A യുടെ വാക്കുകളിൽ ഉള്ള വിവരണം നിങ്ങൾക്ക് അറിയാവുന്നത് കൊണ്ട് ഇത് മൈനസ് j ഒമേഗ A മൈനസ് 1 മൈനസ് j ഹരിക്കണം ഒമേഗാ മ്യൂ എഫ്സിലോൺ ഡെൽ ഡെൽ ക്രോസ് A ആയിരിക്കും ഈ വിവരണം അല്പം സങ്കീർണമാണ് എങ്കിൽ മറ്റൊരു വിധത്തിൽ HAകണ്ടുപിടിച്ചിട്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കാം മാക്സ്വെൽ സമവാക്യത്തിൽ അത് നേരിട്ട് നിക്ഷേപിച്ച ശേഷം നിങ്ങൾക്ക് കണ്ടുപിടിക്കാം ഇത് മറ്റൊരു വിധത്തിൽ ഉള്ള വഴിയാണ് അതുകൊണ്ട് ഇതിനോടകം HA നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് ഡെൽ ക്രോസ് HAസമം j ഒമേഗാ എഫ്സിലോൺ EA എന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ കഴിയും ഇവിടെ J പൂജ്യം ആയിരുന്നു എന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും കാരണം ഞാൻ ഇതെല്ലാം ചെയ്ത നിരീക്ഷണ ബിന്ദുവിൽ J ഇല്ലായിരുന്നു അതുകൊണ്ട് മാക്സ്വെൽ സമവാക്യത്തിൽ J നിക്ഷേപിക്കുക നിങ്ങൾക്ക് ഇത് കിട്ടും അതുകൊണ്ട് ഇവിടെ നിന്നും നിങ്ങൾക്ക് EAകിട്ടും EAഎന്നത് ഡെൽ ക്രോസ് HAഹരിക്കണം j ഒമേഗാ എഫ്സിലോൺ ആയിരിക്കും അതായത് ഈ EAയും HAയും നിങ്ങൾ കണ്ടുപിടിച്ചു അതുപോലെ ഇതേ വിധത്തിൽ EFൽനിന്നും F കണ്ടുപിടിക്കുക അതുകൊണ്ട് EFഎന്നത് മൈനസ് 1 ഹരിക്കണം എഫ്സിലോൺ ഡെൽ ക്രോസ് F എന്നും HFഎന്നത് മൈനസ് j ഒമേഗാ F മൈനസ് j ഹരിക്കണം ഒമേഗാ മ്യൂ എഫ്സിലോൺ ഡെൽ ഡെൽ ക്രോസ് F എന്നും പറയാം അല്ലെങ്കിൽ വേറൊരു തരത്തിൽ പറയാം മാക്സ്വെൽ സമവാക്യത്തിൽ നിന്നും നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ കഴിയും ഇവിടെ M പൂജ്യം ആണെന്നുള്ള കാര്യം ഓർത്തു വച്ച് EFൻറെ കേൾ എടുത്താൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ കഴിയും ഇനി നിങ്ങൾ സൂപ്പർപൊസിഷൻ സിദ്ധാന്തം ഉപയോഗിക്കുക അതുകൊണ്ട് വികിരണം ചെയ്യപ്പെട്ട മുഴുവൻ വൈദ്യുത മണ്ഡലം എന്നു പറയുന്നത് EAപ്ലസ് EFആയിരിക്കും അങ്ങനെ പറയുന്നത് മൈനസ് j ഒമേഗാ A മൈനസ് j ഹരിക്കണം ഒമേഗാ മ്യൂ എഫ്സിലോൺ ഡെൽ ഡെൽ ക്രോസ് A മൈനസ് 1 ഹരിക്കണം എഫ്സിലോൺ ഡെൽ ക്രോസ് F ആയിരിക്കും നിങ്ങൾക്ക് മറ്റുവിധത്തിലുള്ള വിവരണങ്ങൾ ഉപയോഗിക്കാം പക്ഷേ എനിക്ക് ഇതു തന്നെ ഉപയോഗിക്കാൻ ആണ് താല്പര്യം കാരണം അടുത്ത പടിയായ ഫാർ ഫീൽഡ് അപ്രോക്സിമേഷനിലേക്ക് നമ്മൾ പോകുമ്പോൾ ഇതായിരിക്കും നമ്മൾക്ക് എളുപ്പം അതായത് സങ്കീർണത കുറഞ്ഞ നല്ലൊരു വിവരണം ഇതു തരും അതുകൊണ്ടാണ് ആണ് ഞാൻ ഇതരമാർഗ്ഗം എഴുതാത്തത് നിങ്ങൾ H കണ്ടുപിടിക്കു അതുകൊണ്ട് H എന്ന് പറയുന്നത് HAപ്ലസ് HFആയിരിക്കും അത് നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം മൈനസ് 1 ഹരിക്കണം മ്യൂ ഡെൽ ക്രോസ് A മൈനസ് j ഒമേഗാ F മൈനസ് j ഹരിക്കണം ഒമേഗാ മ്യൂ എഫ്സിലോൺ ഡെൽ ഡെൽ ഡോട്ട് F ഇപ്പോൾ നിങ്ങൾക്ക് കാണാം വികിരണം ചെയ്യപ്പെട്ട മണ്ഡലത്തിൻ്റെ പൊതുവായ ഉത്തരം നമ്മൾക്ക് കിട്ടി ഫാർ ഫീൽഡ് വികിരണം എന്ന അടുത്ത ഭാഗം നമ്മൾ അടുത്ത ക്ലാസ്സിൽ കാണും കാരണം നിയർ ഫീൽഡ് എന്നതിന് നമ്മൾ അത്ര പ്രാധാന്യം നൽകുന്നില്ല പക്ഷേ നിങ്ങൾക്ക് നിയർ ഫീൽഡ് അറിയണമെന്നുണ്ടെങ്കിൽ ഇതാണ് അതിൻറെ യഥാർത്ഥ ഉത്തരം ഇവിടെ നിന്നും നിങ്ങൾക്ക് അതു കണ്ടുപിടിക്കാം ഇനി നിയർ ഫീൽഡ് എന്താണ് റിയാക്ടീവ് ഇംപിഡൻസ് മുതലായവ നിങ്ങൾക്ക് നിർണ്ണയിക്കണമെന്നുണ്ടെങ്കിൽ ഈ സമവാക്യം നിങ്ങളെ സഹായിക്കും പക്ഷേ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഫാർ ഫീൽഡ് ആണ് അതുകൊണ്ട് അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഫാർ ഫീൽഡ് അപ്രോക്സിമേഷനും അതിൻറെ ലഘൂകരണവും ചെയ്യും